ഷണത്തിലേക്ക് സ്വാഗതം പരാസിറ്റിക് എറേയിലെ എല്ലാ ഘടകങ്ങളും ഡ്രൈവ് ചെയ്യപ്പെടുന്നില്ല ഒരു യൂണിഫോം എറേയെ എക്സൈറ്റ് ചെയ്യണമെങ്കിൽ ഉചിതമായ ഫീഡിങ് ക്രമീകരണങ്ങൾ ആവശ്യമാണ് ഇതിലെ ഓരോ ഘടകങ്ങൾക്കും ആവശ്യാനുസരണം വ്യത്യസ്തമായ ഫെയ്സ് ആംപ്ലിറ്റ്യൂഡ് എക്സൈറ്റേഷനുകളും വേണം പരാസിറ്റിക് എറേയിൽ നമ്മൾ എല്ലാ ഘടകങ്ങൾക്കും എക്സൈറ്റേഷൻ നൽകുന്നില്ല ഇതിനുപകരം ഫീഡിങ്ങിന് ആയി ഒരു റേഡിയേറ്റർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിനു പുറമേ പരാസിറ്റിക് റേഡിയേറ്റർ ഉപയോഗിച്ചാൽ നല്ല ഡയറക്റ്റിവിറ്റി ലഭ്യമാക്കാം ഈ രീതി പ്രവർത്തിച്ചേക്കാം ചിലപ്പോൾ പ്രവർത്തിച്ചേക്കില്ല അതിനാൽ വളരെ ലളിതമായ ഘടനകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന പല ഡിസൈനുകൾ ചില ആളുകൾ കണ്ടെത്തി അതിലൊന്ന് വളരെ പ്രസിദ്ധമായ യാഗി ഉഡ എറേ ആണ് യാഗി ഉഡ രണ്ട് ജാപ്പനീസ് ശാസ്ത്രജ്ഞർ ആണ് അവർ അത്തരം ഒരു പരാസിറ്റിക് എറേ കണ്ടെത്തി ഇത് മിക്കവാറും എല്ലായിടത്തും എച്ച്എഫിൽ ഉപയോഗിക്കുന്നു എച്ച്എഫ് എന്നാൽ അർത്ഥമാക്കുന്നത് 3 മുതൽ 30 MHz തുടർന്ന് 30മുതൽ 300 MHz വരെ വിഎച്ച്എഫ് ഒപ്പം 300 മുതൽ 3000 MHz വരെ യു എച്ച് എഫ് ആണ് ടിവി പ്രക്ഷേപണത്തിന് 300 MHz ആണ് ഉപയോഗിക്കുന്നത് ടിവി പ്രക്ഷേപണങ്ങൾ തുടക്കത്തിൽ ഈ മേഖലയിലായിരുന്നു പിന്നീട് അത് ഇവിടെയായി അതിനാൽ ഏത് സ്ഥിതിയിലും ഇതിൻറെ പ്രയോഗം ടിവി ട്രാൻസ്മിഷനാണ് ടിവി പ്രക്ഷേപണത്തിന് ഇത് ഒരു മികച്ച ആന്റിനയാണ് മാത്രമല്ല ഇത് നല്ല അളവിലുള്ള ഡയറക്റ്റിവിറ്റി നൽകുന്നു ഇത് ഒരു ഡൈപോളിന് സാധ്യമല്ല അതിനാൽ ഈ ഘടന മനസ്സിലാക്കുന്നതിനായി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം എനിക്ക് ഒരു ഡൈപോൾ ആന്റിനയുണ്ട് ഇത് ഒരു പരാസിറ്റിക് തരം ആണ് ആദ്യമായി കാണുന്നത് പരാസിറ്റിക് തരം അതിന് ഡ്രൈവ്ചെയ്തിട്ടില്ല രണ്ടാമതായി കാണുന്ന ഘടകത്തിന് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇവിടെ ഒരു ഫീഡ് ഉണ്ട് ഈ സ്പേസിങ് നമുക്ക് 'ഡി' എന്ന് പറയാം അതിനാൽ ഇത് രണ്ട് എലമെന്റ് എറേ ആണ് എറേ ആക്സിസ് എന്താണ് ഇതാണ് എറേ ആക്സിസ് ഇത് ഒരു ഘടകമാണ് ഇത് മറ്റൊരു ഘടകമാണ് ഇവിടെ ഒന്ന് എന്ന് കാണുന്നത് റഫറൻസായി എടുക്കുന്നു ഈ ആംഗിൾ psi ആംഗിൾ ആണ് അതിനാൽ ഇതാണ് എറേ ആക്സിസ് രണ്ട് എലമെന്റ് എറേ ഇതിനെയാണ് നിരീക്ഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മുഴുവൻ കാര്യങ്ങളും എനിക്ക് ടു പോർട്ട് നെറ്റ്വർക്കായി കാണാൻ കഴിയും ഇത് ഒരു പോർട്ട് ഇത് മറ്റൊരു പോർട്ട് ആ അതിനാൽ എനിക്ക് എഴുതാൻ കഴിയും ഇവിടെ എക്സൈറ്റ് ചെയ്താൽ ഇവിടെ കറന്റ് ഉണ്ട് ഇപ്പോൾ ഇത് ഈ റേഡിയേറ്റർ 1 ന് സമീപമുള്ളതിനാൽ ഇത് ഒരു കണ്ടക്ടറാണ് അതിനാൽ ഇവിടെ ആകെ ഉണ്ടാവുന്ന വികിരണ ഫീൽഡിന്റെ പിന്നെ അതു തമ്മിലുള്ള മ്യൂച്വൽ കപ്ലിങ് അതും ഇവിടെ കുറച്ച് വൈദ്യുത പ്രവാഹത്തെ പ്രേരിപ്പിക്കും അതിനാൽ പോർട്ട് 1 ലെ വോൾട്ടേജ് എന്തായിരിക്കുമെന്ന് എനിക്ക് എഴുതാൻ കഴിയും ഇതാണ് എന്റെ പോർട്ട് 1 ഇതാണ് പോർട്ട് 2 അതിനാൽ V1 Z11 I1 പ്ലസ് Z12 I2 ഉം V2 Z21 I1 പ്ലസ് Z22 I2 ഉം ആയിരിക്കും ടൂ പോർട്ട് നെറ്റ്വർക്കിനായി എനിക്ക് ഇത് എഴുതാമോ കൂടാതെ ഈ ഘടകം 1 ഇത് ഒരു ഡ്രൈവ് ചെയ്യാത്ത ഘടകമാണ് അതിനാൽ ഈ വോൾട്ടേജ് 0 ആയിരിക്കും ഇപ്പോൾ ഈ I1 I2 എന്നിവയ്ക്കായി എനിക്ക് പരിഹരിക്കാൻ കഴിയും I1 എന്തായിരിക്കും I1 സമമാണ് മൈനസ് Z12 V2 ഇതിനെ Z11 Z22 കൊണ്ട് ഹരിക്കുന്നു മൈനസ് Z12 സ്ക്വയർ I2 സമമാണ് Z11 V2 ഇതിനെ Z11 Z22 കൊണ്ട് ഹരിക്കുന്നു മൈനസ് Z12 സ്ക്വയർ അതിനാൽ രണ്ടിൽ നിന്നും വികിരണം ഉണ്ടാകും ഞാൻ ഇതിനെ എക്സൈറ്റ് ചെയ്തില്ലെങ്കിലും മ്യൂച്വൽ കപ്ലിങ് കാരണം അതായത് ഈ Z12 ഉം Z21 ഉം നേരത്തെ ഇത് പരിഗണിച്ചിരുന്നില്ല പക്ഷേ പ്രായോഗിക സന്ദർഭങ്ങളിൽ ഇത് ഉണ്ട് ഇത് കാരണം I1 I2 എന്നിവ രണ്ടിലും കറന്റ് ഉണ്ട് രണ്ടും ഇപ്പോൾ വികിരണം ചെയ്യും അതിനാൽ ഇവിടെ ഫാർ ഫീൽഡ് വികിരണവും അവയിൽ നിന്ന് ആയിരിക്കും ഇപ്പോൾ ആ I1 നെ I2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് മൈനസ് Z11 ഹരം Z12 ആണ് ഇപ്പോൾ ഇവ രണ്ടും കോംപ്ലക്സ് ഇംപെഡൻസ് ആണ് ഇപ്പോൾ ഇത് എനിക്ക് മൈനസ് മാഗ്നിറ്റ്യൂഡ് ഭാഗമായും കുറച്ച് ഫെയ്സ് ഭാഗമായും എഴുതാൻ കഴിയും കാരണം ഇത് അടിസ്ഥാനപരമായി സ്പേസിങ് ഇൽ ആശ്രയിച്ചിരിക്കും അതിനാലാണ് ഞാൻ ഇവിടെ ഡി കോൺസ്റ്റൻസ് ആൽഫ ഉപയോഗിച്ചത് അതിനാൽ ഈ അനുപാതത്തിന്റെ ഫെയ്സ് ആണ് ഇത് ഫീൽഡ് എറേ പാറ്റേൺ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ പറയാനാകുമോ ഇവിടെ കാണുന്ന 2 ഇത് എന്റെ റഫറൻസാണ് അതിനാൽ എഫ് യു എന്നതിന് തുല്യമാണ് 1 മൈനസ് Z12 ഹരം Z11 e ടൂ ദി പവർ j ആൽഫ d മൈനസ് j k0 d കോസ് psi എനിക്ക് ഇത് എഴുതാമോ കാരണം ഇവ രണ്ടിനും ഇടയ്ക്ക് സ്പേസ് ഉണ്ടാകും അതിനാൽ ഈ ടു എലി മെൻറ് എറേയുടെ എറേ പാറ്റേൺ ഇതാണ് ഇപ്പോൾ ഈ ദിശയിൽ എനിക്ക് പരമാവധി വികിരണം ഉണ്ടായിരിക്കണം അതിനർത്ഥം psi 0 ന് തുല്യമാണ് കാരണം തരംഗം ഇവിടെ നിന്ന് വരും എനിക്ക് അത് ലഭിക്കും അതിനാൽ ഇവിടെ ഒരു എൻഡ് ഫയർ ആണ് എനിക്ക് ആവശ്യം അതിനാൽ psi യിൽ പരമാവധി വികിരണം ലഭിക്കുന്നത് psi 0 ആയിരിക്കുന്നു ഇന്ന് ദിശയിലാണ് ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ ഭാഗം എത്രമാത്രം ആൽഫ d മൈനസ് k0 d പ്ലസ് മൈനസ് pi തുല്യമായിരിക്കണം എനിക്ക് ഇത് പറയാൻ കഴിയുമോ കാരണം ഈ ഭാഗം ആൽഫ d മൈനസ് k0 d അതിനാൽ അത് എനിക്ക് നൽകുന്നത് d തുല്യം മൈനസ് പ്ലസ് ആൽഫ അതിനാൽ നമ്മൾ ഇതുപോലെയുള്ള 'd' തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി വികിരണം ലഭിക്കും അടുത്തതായി നമ്മൾ ആഗ്രഹിക്കുന്നത് പരമാവധി ഈ ദിശയിലായിരിക്കണം എന്നാണ് അതിനുവേണ്ടി ഈ ദിശയുടെ പിന്നിലെ ദിശയിൽ അത് ശൂന്യമായിരിക്കണം അതിനാൽ എന്താണ് അവസ്ഥ അതായത് വികിരണങ്ങളെ പിന്നോക്ക ദിശയിൽ അടിച്ചമർത്താൻ psi pi ദിശയ്ക്ക് തുല്യം ആകണം അതിനായി നമ്മൾക്ക് ആവശ്യം ആൽഫ d മൈനസ്k0 ആവശ്യമാണ് ആൽഫ ഡി പ്ലസ് കെ 0 ഡി ആവശ്യമാണ് കാരണം ആ ദിശ അതിനാൽ കോസ് pi മൈനസ് 1 ആണ് അതിനാൽ പ്ലസ് ആകാൻ കഴിയില്ല ഒന്നുകിൽ 0 അല്ലെങ്കിൽ 2 pi ആയിരിക്കണം കൂടാതെ എനിക്ക് Z12 ഹരം Z11 മാഗ്നിറ്റ്യൂഡ് ഒന്ന് ആയിരിക്കണം ഇവ രണ്ടും ഒരേസമയം സംതൃപ്തമായിരിക്കണം എന്നാൽ ഈ രണ്ടാമത്തെ വ്യവസ്ഥ സാധ്യമല്ല കാരണം സെൽഫ് ഇംപെഡൻസും മ്യൂച്വൽ ഇംപെഡൻസും ആണ് മ്യൂച്വൽ ഇംപെഡൻസ് എല്ലായ്പ്പോഴും സെൽഫ് ഇംപെഡൻസിനേക്കാൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ഇത് അവഗണിച്ചത് ഈ അവസ്ഥ നമ്മൾക്ക് പാലിക്കാൻ കഴിയില്ല അതിനാൽ അവിടെകുറച്ച് വികിരണം ഉണ്ടാകും ഇതിന് ശൂന്യം ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് കഴിയുന്നതും കുറയ്ക്കാനാണ് അതിനാൽ പിന്നോക്ക ദിശയിൽ പൂർണ്ണമായ വികിരണ ശൂന്യത സാധ്യമല്ല അതിനാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് അനുയോജ്യമായത് അനുയോജ്യമായ ഒരു യാഗി ഉഡാ ആന്റിന നമുക്ക് d ഉണ്ടായിരിക്കണം ആൽഫ d പരീക്ഷണത്തിൽ നിന്ന് അവർ കണ്ടെത്തിയത് മൈനസ് pi 2 ഉം Z12 Z11ഒന്നിന് തുല്യവുമാണ് പക്ഷേ ഇത് നിർമ്മിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ d lambda not by നാലിന് തുല്യമാക്കി ഇത് വളരെ ചെറിയ Z12 തരുന്നു Z12 ചെറുതാണെങ്കിൽ അതിനർത്ഥം പരാസിറ്റിക് റേഡിയേറ്റർ നിലവിലുള്ള കറൻറ് വളരെ ചെറുതാണ് ചിലർ d സാധാരണയായി lambda not by നാല് നേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ട് ആണ് പരിഗണിക്കുന്നത് ഇപ്പോൾ ശരിയായ രീതിയിൽ ഡിസൈൻ പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് ഡിസൈൻ പാരാമീറ്ററുകൾ ഈ d ഉം ഡൈപോളി ന്റെ നീളവും ആണ് ഇത് ഉപയോഗിച്ച് ടു എലിമെൻറ് എറേയിൽ നമ്മൾക്ക് 3 ന്റെ ഡയറക്റ്റിവിറ്റി നേടാനാകും ഇപ്പോൾ പരാസിറ്റിക്ക് മൂലകം ഈ അനുരണന നീളത്തേക്കാൾ ചെറുതാണെങ്കിൽ അതിനർത്ഥം l1 lambda not by രണ്ട് നേക്കാൾ കുറവാണെന്ന് എനിക്ക് പറയാൻ കഴിയും തുടർന്ന് ഇത് ഒരു ഡയറക്ടറായി പ്രവർത്തിക്കുകയും ഡയറക്ടറിൽ പരമാവധി വ്യതിയാനം സംഭവിക്കുകയും ചെയ്യുന്നു അതിനർത്ഥം ചിലർ ഘടനയെ ഇതുപോലെയാക്കി ഇവിടെ ഒരു ഡ്രിവൻ എലിമെൻസ് ഉണ്ടെന്ന് കരുതുക ഈ ദിശയിൽ എനിക്ക് വികിരണം ആവശ്യമില്ല ഇത് ഒരു പരാസിറ്റിക് മൂലകമാണ് ഇവിടെ എനിക്ക് ഒരു ഹ്രസ്വ ഘടകമുണ്ട് lambda not by രണ്ട് നേക്കാൾ ചെറുത് അതിനാൽ ഇത് വികിരണം മെച്ചപ്പെടുത്തും ഇവയെ ഡയറക്ടർ എന്ന് വിളിക്കുന്നു ചിലർ ഇതുപോലെയുള്ള പല ഘടകങ്ങൾ എടുത്തേക്കാം ഇത് തന്നിരിക്കുന്ന മൂലകമാണ് ഇത് lambda by 2 ഡൈപോൽ ഇതിനെ റിഫ്ലക്ടർ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ റിഫ്ലക്റ്റർ പുറകിലെ വികിരണത്തെ അടിച്ചമർത്തുകയും ഈ ഡയറക്ടർ ഇവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ യഥാർത്ഥത്തിൽ ഞാൻ അതിനെ വിളിക്കുകയാണെങ്കിൽ ഇതിനെ മൈനസ് 1 എലമെന്റ് എന്നും ഇതിനെ 0 എലമെന്റ് എന്നും ഇതിനെ 12 എന്നും വിളിക്കുന്നു അതിനാൽ പൊതുവായി നമുക്ക് n ഡയറക്ടർ കൾ ഉണ്ടായിരിക്കാം ഇത് ഇപ്പോൾ ഒരു n പ്ലസ് 1 പോർട്ടായി മാറുന്നു അതിനാൽ നിങ്ങൾക്ക് N പോർട്ട് Z മാട്രിക്സ് ഇതുപോലെ എഴുതാം അതിനാൽ ഡിസൈൻ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ di എലമെൻറ് ദൈർഘ്യം li അതായത് കറൻറ് I ഐ യുടെ ഫെയ്സ് മുന്നോട്ടുള്ള ദിശയിലുള്ള വികിരണ ഫീൽഡിന് ചേരുന്ന ഫെയ്സ് ആയിരിക്കണം എന്നാൽ ഈ ക്രമീകരിക്കാവുന്ന എല്ലാ പാരാമീറ്ററുകളും പരസ്പരം ബന്ധപ്പെട്ടതിനാൽ അത് പരിഹരിക്കാൻ പ്രയാസമാണ് പക്ഷേ ചില അനുഭവേദ്യ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ പ്രോഗ്രാമുകൾ ചില പുസ്തകങ്ങളിൽ ലഭ്യമാണ് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് നേടാനാകും ഇപ്പോൾ ഈ പരാസിറ്റിക് എറേയുടെ ഗുരുതരമായ ഒരു പ്രശ്നം ഈ ഡൈപോളിന് ടെർമിനലുകളിലേക്ക് നോക്കിയാൽ വികിരണ പ്രതിരോധം വളരെ കുറവായി മാറുന്നു നമുക്ക് ലഭിക്കുന്നത് 73 ഓം അല്ല കാരണം അവയിൽ ചിലത് വികിരണം ചെയ്യപ്പെടാത്തതിനാൽ ഡയറക്ടറും റിഫ്ലക്ടറുകളും അതിന് തടസ്സമാകുന്നു അതിനാൽ ഒരു പരാസിറ്റിക് എലിമെൻറ് ഉപയോഗിക്കുന്ന സ്പേസിങ് 0 1 ലാംഡ ആണെങ്കിൽ ഇത് റേഡിയേറ്റർ പ്രതിരോധം 0 15 എന്ന ഘടകത്തിൽ കുറയ്ക്കൂo അതിനാൽ നമുക്ക് 0 1 ലാംഡയുടെ അകലം ഉണ്ടെങ്കിൽ റേഡിയേഷൻ പ്രതിരോധം 15 ശതമാനം കുറയുന്നു ഞങ്ങൾക്ക് 0 5 ലാംഡയുടെ അകലം ഉണ്ടെങ്കിൽ 30 ശതമാനം കുറയും അതിനാൽ സാധാരണയായി ഡൈപോളിന് വികിരണ പ്രതിരോധം 20 ഓം പോലെയാണ് ഇത് വളരെ ചെറുതാണ് പ്രവർത്തനത്തിന്റെ ആവൃത്തി ബാൻഡാണ് മറ്റൊരു പ്രശ്നം സാധാരണയായി ഓപ്പറേഷന്റെ ആവൃത്തി ബാൻഡ് 2 മുതൽ 3 ശതമാനം വരെ കവിയരുത് കാരണം പരാസിറ്റിക് മൂലകങ്ങളുടെ നിർണ്ണായക ട്യൂണിംഗ് കൊണ്ട് ഒപ്റ്റിമൽ ഫലം ലഭിക്കാൻ ആവശ്യമാണ് സാധാരണഗതിയിൽ ഡിസൈനർമാർ ഉപയോഗിക്കുന്ന ചില മൂല്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഡ്രിവൻ ഡൈപോളിന് ദൈർഘ്യം 0 45 മുതൽ 0 49 ലാംഡ ഡയറക്ടർ ദൈർഘ്യം 0 4 മുതൽ 0 45 ലാംഡ സാധാരണ 0 5 ലാംഡയേക്കാൾ കുറവല്ല റിഫ്ലക്ടർ നീളം 0 5 ലാംഡയേക്കാൾ കൂടുതലാണ് നിങ്ങൾ ഒരു യാഗി എറേ കണ്ടാൽ നിങ്ങൾക്ക് ഇത് വഴി റിഫ്ലക്ടറെയും ഡയറക്ടർമാരെയും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും റിഫ്ലക്റ്റർ ലോഗിന്റെ പരമാവധി ആണ് ഡ്രിവൻ ഡൈപോളിന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഫീഡ് എന്താണെന്നും ഡയറക്ടർ എന്താണെന്നും തിരിച്ചറിയാനും കഴിയും അതിനാൽ ഏത് ദിശയിലാണ് വികിരണം നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും റേഡിയേഷൻ ഡയറക്ടർ ഉള്ള ദിശയിലാണ് അത് റിഫ്ലക്ടർ ഉള്ള ദിശയിൽ വികിരണം അടിച്ചമർത്തപ്പെടുന്നു പിന്നെ ഡയറക്ടർ സ്പേസിംഗ് അത് സാധാരണയായി 0 3 മുതൽ 0 4 വരെ ലാംഡ ആണ് റിഫ്ലക്ടർ സ്പേസിംഗ് അതായത് 0 25 ലാംഡ ഇപ്പോൾ ഡയറക്ടർ ഒരേ നീളത്തിൽ ആയിരിക്കണമെന്നില്ല വിവിധ ഡിസൈനർമാർ വ്യത്യസ്തമായ ഒന്ന് ഉപയോഗിക്കുന്നു ഒന്നിൽ കൂടുതൽ റിഫ്ലക്ടറുകൾ വികിരണ സവിശേഷതകളിൽ മാറ്റം വരുത്തുന്നില്ലെന്ന് കണ്ടെത്തി അതിനാൽ സാധാരണയായി മിക്ക ഡിസൈനുകളിലും ഒരു റിഫ്ലക്ടർ മാത്രമേയുള്ളൂ റേഡിയേഷൻ പ്രകടനം വർദ്ധിപ്പിക്കുന്ന ഡയറക്ടർരുടെ എണ്ണം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഒരു നിശ്ചിത എണ്ണത്തിന് അപ്പുറം ഡയറക്ടർ കറന്റ് വളരെ ചെറുതാണ് അതായത് വികിരണത്തിനുള്ള സംഭാവന നിസാരമാണ് സാധാരണയായി ഡിസൈനർമാർക്ക് 6 മുതൽ 12 വരെ ഡയറൿടർ ഉണ്ട് അതിനാൽ എറേ നീളം സാധാരണയായി 6 ലാംഡ ആണ് നേട്ടം ഓരോ തരംഗദൈർഘ്യത്തിനും 5 മുതൽ 9 വരെയാണ് അതിനാൽ സാധാരണയായി ഇത് 30 മുതൽ 54 വരെ അല്ലെങ്കിൽ ഡിബി പദങ്ങളിൽ 14 8 മുതൽ 17 3 ഡിബി വരെ വരും ഇത് വളരെ നല്ലതാണ് വാസ്തവത്തിൽ അതുകൊണ്ടാണ് നിങ്ങൾ പല ടിവി ആപ്ലിക്കേഷനുകളിലും ഇത് സംഭവിക്കുന്നത് ഒരു ഡൈപോൾ ഉപയോഗിച്ചാൽ സ്വീകരണം ലഭിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന നിമിഷം കാരണം ഇത് ഒരു ഡൈപോൾ മായി താരതമ്യപ്പെടുത്തുമ്പോൾ നേട്ടം വളരെ വലുതാക്കുന്നു ഇപ്പോൾ ഈ യാഗി ആന്റിനയുടെ പ്രധാന വികിരണ സ്വഭാവം ഫോർവേർഡ് ആൻഡ് ബാക്ക്വേർഡ് ഗെയിൻ ആണ് അതിനാൽ പിന്നോക്ക ദിശയിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം കുറയ്ക്കാനാകും ഇൻപുട്ട് ഇംപെഡൻസ് ബാൻഡ്വിഡ്ത്ത് ഫ്രണ്ട് ടു ബാക്ക് റേഷ്യോ മൈനർ ലോബ് ലെവൽ തുടങ്ങിയവ അതിനാൽ ഇത് ഒരു അനുഭവാത്മക രൂപകൽപ്പനയുടെ മികച്ച ഉദാഹരണമാണ് ഒടുവിൽ ലോഗ് പീരിയോഡിക് എറേ എന്ന് വിളിക്കുന്ന മറ്റൊരു എറേ നമ്മൾ കാണും ഇതൊരു രസകരമായ എറേയാണ് ഇതിനെ നേരത്ത് ബ്രോഡ്ബാൻഡ് എറേ എന്ന് വിളിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഒരു ആന്റിന ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ അതിൽ കൂടി ഒരു പൾസ് കടന്നുപോകാൻ കഴിയും നേരത്തെ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ആ നാരോ ബാൻഡ് സിഗ്നൽ ഉണ്ടെന്ന് കരുതുക ഞാൻ അത് ഒരു ആന്റിന ഉപയോഗിച്ചാണ് അയയ്ക്കുന്നത് ഞാൻ അയയ്ക്കുന്ന മറ്റ് ആവൃത്തിയിലുള്ള മറ്റൊരു നാരോ ബാൻഡ് സിഗ്നൽ അതേ ആന്റിന ഉപയോഗിച്ചാണ് അയക്കുന്നു അഥവാ ഈ രണ്ടു സിഗ്നലും താരതമ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് ബ്രോഡ്ബാൻഡ് എന്ന് വിളിച്ചിരുന്നു പക്ഷെ പ്രശ്നം ഇത്തരത്തിലുള്ള ബ്രോഡ്ബാൻഡ് ആന്റിനയാണ് ഇവിടെ നിരവധി നാരോ ബാൻഡ് സിഗ്നലുകൾ ഉണ്ട് ഇത് ഡിസ്പർഷൻ ഉണ്ടാക്കുന്നു ഒരു പൾസ് അയച്ചാൽ ആവശ്യമായത് ഒരേ സമയം എല്ലാ ആവൃത്തികളും കൈമാറേണ്ടതുണ്ട് അത് ലോഗ് പീരിയോഡിക് എറേ കഴിയില്ല ഇത് ഒരു ഡിസ്പർസിം എറേ ആണ് അതിനർത്ഥം ഞാൻ ഒരു ബ്രോഡ്ബാൻഡ് സിഗ്നൽ അയച്ചാൽ അത് ഡിസ്പർഷൻ ഉണ്ടാക്കുന്നുഒരു പൾസ് അയയ്ക്കുക പക്ഷേ ഞാൻ നാരോ ബാൻഡ് സിഗ്നലുകൾ അയയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ വലിയ ബാൻഡ്വിഡ്ത്ത് അതിലൂടെ ആ സിഗ്നലുകൾ കൈമാറാൻ കഴിയും അതിനാൽ ഈ ശ്രേണി ഉപയോഗിച്ച് ഈ എറേകളെ ബ്രോഡ്ബാൻഡ് ആൻറിന എന്ന് വിളിക്കുന്നു അവ 3 മുതൽ 1 വരെ ഫ്രീക്വൻസി ബാൻഡിൽ പ്രവർത്തിക്കാൻ കഴിയും ഈ ഏറ്റവും ഉയർന്ന ഓപ്പറേറ്റിംഗ് ആവൃത്തിയും ഏറ്റവും കുറഞ്ഞ ഓപ്പറേറ്റിംഗ് ആവൃത്തിയും അതായത് fupper by flower 3 ആണ് ഇപ്പോൾ എന്താണ് ആശയം യഥാർത്ഥത്തിൽ ഇത് പ്രൊഫസർ റാംസെ നൽകിയ ആശയം ആയിരുന്നു അദ്ദേഹം തന്ന ആശയം ഒരു ഘടന കെട്ടിപ്പടുക്കുക ആവൃത്തി മാറുന്നതിനനുസരിച്ച് അത് ആനുകാലികമായി വർദ്ധിപ്പിക്കും ഈ ആംഗിൾ ആൽഫയായിരുന്നു അദ്ദേഹത്തിന്റെ പോയിന്റ് ഒരു ആന്റിന തരംഗദൈർഘ്യമുള്ള ലാംഡയിൽ തൃപ്തികരമായി പ്രവർത്തിക്കുന്നു എങ്കിൽ ഒരു തരംഗദൈർഘ്യമുള്ള ലാംഡ 2 ലും ഇത് പ്രവർത്തിക്കും ഒരു ആന്റിന ഒരു ആവൃത്തിയിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് കരുതുക ആ തരംഗദൈർഘ്യത്തിന്റെ വിപരീതംഒരു നിശ്ചിത തരംഗദൈർഘ്യത്തിന് മുകളിൽ ഇതിന് 3 മീറ്റർ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പറയാം ഇപ്പോൾ അതേ ആന്റിനയ്ക്ക് 2 ന് 2 മീറ്റർ തരംഗദൈർഘ്യത്തിൽ ചെയ്യാൻ കഴിയും ഞാൻ അതിന്റെ അളവ് 2 മുതൽ 3 വരെ ഒരു ഘടകം കൊണ്ട് അളക്കുകയാണെങ്കിൽ അതാണ് ആശയം അതിനാൽ ഞാൻ നിർദ്ദേശിച്ചത് എനിക്ക് ഇതുപോലുള്ള ഒരു ഘടനയുണ്ടെന്ന് കരുതുക അതിനർത്ഥം ഇത് ഒരു ആംഗിൾ ആൽഫ ഇവിടെ ഞാൻ ഒരു മൂലകം എടുക്കുന്നുവെന്ന് കരുതുക ഞാൻ ഇവിടെ ഒരു ഘടകം എടുക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നു ഞാൻ അതിനെ n പ്ലസ് 1 മൂലകം എന്ന് വിളിക്കുന്നുവെന്ന് കരുതുക ഞാൻ അതിനെ n മൂലകം എന്ന് വിളിക്കുന്നു അപ്പോൾ ഇത് n മൈനസ് 1 ഇത് n മൈനസ് 2 ആണ് ഈ നീളം xn 1 ഉം ആണ് ഈ നീളം xn ഉം ഇനി നമ്മൾ കാണുന്നത് ഡൈപോളിൻറെ പാരാമീറ്റർ ഡൈപോളിൻറെ പാരാമീറ്ററുകൾ നീളം ln വ്യാസം ഇത് വ്യാസം ഇത് നീളം അഗ്രത്തിൽ നിന്നുള്ള ദൂരം dn ഇതാണ് ഇന്റർ എലമെൻറ് സ്പേസിംഗ് അങ്ങനെ dn ഇത് dn മൈനസ് 1 ഇപ്പോൾ xn 1 by xn ന് തുല്യമാണ് ln 1 by ln അതിന് തുല്യo dn 1 by dn ഇതിനെല്ലാം തുല്യമായ ഒരു പാര മീറ്റർ ടൌ അതിനാൽ അറേ പൂർണ്ണമായും നിർവചിച്ചിരിക്കുന്നത് ഈ പാരാമീറ്റർ ടൌ ആണ് എനിക്ക് പറയാൻ കഴിയും tau dn by 2 ln അല്ലെങ്കിൽ ആൽഫ ഉപയോഗിച്ച് കഴിയും ഈ പാരാമീറ്റർ സിഗ്മ എന്ന് വിളിക്കുന്നു അതിനാൽ tau സിഗ്മ അല്ലെങ്കിൽ ആൽഫ ഇവയിൽ രണ്ടെണ്ണത്തിനും ഈ ശ്രേണി പൂർണ്ണമായും നിർവചിക്കാൻ കഴിയും അതിനാൽ എറേയുടെ എല്ലാ അളവുകളും tau കൊണ്ട് ഗുണിച്ചാൽ അത് n ഘടകവുമായി സ്വയം അളക്കുന്നു എലമെൻറ് n പ്ലസ് 1 ആയി മാറുന്നു അതിനാൽ എറേയ്ക്ക് ഒരേ വികിരണ ഗുണങ്ങളുണ്ടാകും ഒരു ഘടകവുമായി ബന്ധപ്പെട്ട ആവൃത്തികൾ ആദ്യത്തേത് കരുതുക ഇത് f1 ആണെന്ന് കരുതുക അതിനാൽ ഇത് f1 into tau ആകും അതിനാൽ എറേ f1 ൽ തൃപ്തികരമായി പ്രവർത്തിക്കുന്നു ഇത് f2 തുല്യം tau f1 ലും f3 തുല്യം tau സ്ക്വയർ f1 ലും f4 തുല്യo tau ക്യൂബ് f1 ലും മുതലായവയ്ക്ക് തുല്യമാണ് അതിനാൽ യഥാർത്ഥത്തിൽ നമുക്ക് അറിയാൻ കഴിയും ln f2 by f1 അതാണ് tau ln f3 by f1 അതായത് tau ln tau സ്ക്വയർ അതായത് 2 ln tau ln f4 by f1 അത് 3 ln tau ആയിരിക്കും അതിനാൽ tau വിനെ ലോഗ് പിരീഡ് എന്ന് വിളിക്കുന്നു അതിനാൽ എറേയിൽ നിന്ന് വികിരണം ലഭിക്കുന്നതിന് അത് ഒരു ഫീഡ് സിസ്റ്റം കൊണ്ട് എക് സൈറ്റ് ചെയ്യണം അതിനാൽ സാധാരണയായി ഒരു ഫീഡ് കാണും ഇവിടെ 180 ഡിഗ്രി ഫീഡ് നൽകുന്നു അതിനർത്ഥം ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടെങ്കിൽ ഒരു അറ്റം ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റേ അറ്റം ഇവിടെ ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ ഇത് അടുത്ത വശത്തേക്ക് പോകുന്നു ഇത് അടുത്തതിലേക്ക് അങ്ങനെ ബാക്കി എല്ലാ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവയിലെല്ലാം 80 ഡിഗ്രി ഫേസ് ഫീഡ് കൊടുത്തിട്ടുണ്ട് ഒരു നിശ്ചിത ആവൃത്തിയിൽ നീളം ലാംഡ by 2 അടുത്തുള്ളവ ഒഴികെ എല്ലാ ഘടകങ്ങളിലെയും വൈദ്യുതധാരകൾ വളരെ ചെറുതാണ് അത് വ്യക്തമാണ് കാരണം യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക ആവൃത്തിയിൽ ഒരു മാത്രം ഘടന പ്രതിധ്വനിക്കുന്നു അതിലൂടെ ഒന്നിന് ഗണ്യമായ വൈദ്യുതധാരയുണ്ട് അതിനാൽ അതുകൊണ്ടാണ് മറ്റുള്ളവർക്കെല്ലാം ഉയർന്ന റിയാക്ടീവ് ഇംപാഡൻസ് ഉള്ളത് അതുകൊണ്ടാണ് അവിടെ വൈദ്യുതധാരകൾ വലുതല്ല അതിനാൽ ഇത് സാധ്യമാകുന്നത് ഘടന അനന്തമായതുകൊ ണ്ണ് അത് എനിക്ക് കുറച്ച് ആവൃത്തി വേണമെന്ന് കരുതുക അതിനാൽ ഞാൻ കുറച്ച് ചെറിയവ എടുക്കുന്നു ഉയർന്ന ആവൃത്തി എന്ന് കരുതുക അതിനാൽ കുറച്ച് ഘടകങ്ങൾ എക്സ്ട്രാക്റ്റുചെയ്യുക തുടർന്ന് ഞാൻ അത് വെട്ടിച്ചുരുക്കുന്നു ഈ വശം താഴ്ന്ന ആവൃത്തി അതിനാൽ 2 3 എക്സ്ട്രാക്റ്റുചെയ്ത് അതിനെ വെട്ടിച്ചുരുക്കുക അതിനാൽ ഘടന പരിമിതമാണ് അത് പ്രശ്നമല്ല കാരണം മറ്റുള്ളവ അനുരണനം ചെയ്യുന്നില്ല അതിനാലാണ് നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻസി ബാൻഡിൽ ആന്റിന റേഡിയോ അനുരണനം ചെയ്യുന്നു അതിനാൽ tau സാധാരണ 0 96 മുതൽ 0 8 വരെ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആന്റിന ഗെയിൻ 12 dB ആണ് ഇതിനായി ഇത് 8 dB മുതലായവ നൽകുന്നു മറ്റ് പാരാമീറ്റർ സിഗ്മയുടെ സാധാരണ മൂല്യങ്ങൾ അതായത് 0 18 മുതൽ 0 14 വരെ അതിനാൽ വെട്ടിക്കുറച്ചതിനുശേഷം tau n f ഫ്രീക്വൻസി മുതൽ tau ചിലത് മറ്റ് n പ്ലസ് m f വരെ ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ഉയർന്നതും താഴ്ന്നതുമായ ആവൃത്തി ഘടകങ്ങളാണിവf 1 f 1 ഇവിടെ അതിനാൽ ഈ അനുപാതം സാധാരണയായി നിങ്ങൾക്ക് 3 1 വരെ ലഭിക്കും അതിനർത്ഥം tau m 3 ന്റെ ക്രമത്തിലാണ് അതിനാൽ ഈ ലോഗ് പീരിയോഡിക് ഘടന രസകരമായ ഒരു ആശയം ആണ് യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ൽ നിന്നുള്ള കോർനു Spiral നെ ഓർക്കുക അതും ഒരു ലോഗ് പീരിയോഡിക് ഘടന ആണ് അതിനാൽ ഇക്വിയാങ്കുലാർ spiral ആന്റിന യഥാർത്ഥത്തിൽ അത് ഒരു വൃത്താകൃതിയിലുള്ള ആന്റിനയാണ് പക്ഷേ അതും ഇതേ തത്ത്വത്തിൽ നിന്ന് അളക്കുന്നു അതിനർത്ഥം നീളം മുതലായവയ്ക്ക് പകരം നിങ്ങൾ ഘടനയെ ഒരു കോണിലൂടെ നിർവചിക്കുക അവയെല്ലാം ഒരു ലോഗ് പീരിയോഡിക് ആന്റിനയായി ഉപയോഗിക്കാം നമ്മൾ ഇതുവരെ കണ്ടത് എങ്ങനെ ഒരു ബ്രോഡ്ബാൻഡ് ആൻറിന ഡിസ്പർസ് അർത്ഥത്തിൽ നിർമ്മിക്കാം ഈ പ്രശ്നത്തെ മറികടന്നആധുനിക ആന്റിനകൾ ഞങ്ങൾ കാണും ഡിസ്പർഷൻ ഇല്ലാത്ത ഇമ്പൽസ് റേഡിയേറ്റിംഗ് ആന്റിന കാണും ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ 2005 ൽ കണ്ടുപിടിച്ചു ഇത് ഡി വി ഗിരിയും കാൾ ബാമും ചേർന്നാണ് കണ്ടുപിടിച്ചത് അതിനാൽ യഥാർത്ഥത്തിൽ ആന്റിനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭാവന ബ്രോഡ്ബാൻഡ് പക്ഷേ ശരിക്കും വിതരണം ചെയ്യാത്ത ബ്രോഡ്ബാൻഡ് അതിനാൽ നിങ്ങൾക്ക് നേരിട്ട് ഒരു പൾസ് അയയ്ക്കാൻ കഴിയും അതേസമയം ഈ ബ്രോഡ്ബാൻഡ് ആന്റിനകൾക്ക് നിങ്ങൾക്ക് ഒരു പൾസ് അയയ്ക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിലൂടെ ഒരുമിച്ച് ഒരു നീണ്ട ഫ്രീക്വൻസി ബാൻഡിലൂടെ വിവിധ നാരോ ബാൻഡ് സിഗ്നലുകൾ നിങ്ങൾക്ക് അയയ്ക്കാൻ ശ്രമിക്കാം